അപ്പോൾ എന്താണ് ബിഗ് ഡേറ്റ അതിനെക്കുറിച്ച് നമ്മൾക്ക് ചെറുതായിട്ട് ഒരു വിവരണം കൊടുക്കാം ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം എന്താണ് ബിഗ് ഡേറ്റ എന്നതാണ് അത് വളരെ ലളിതമാണ് വലിയ ഒരു ഡേറ്റ ആണ് അത് ഇനി അടുത്ത ചോദ്യം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും എത്രമാത്രം ആണ് ഇത് വലുത് എന്നും ആണ് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ സോഷ്യോളജിയിൽ പോകുമ്പോൾ സോഷ്യോളജിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തും അവർ ഫീൽഡ് എക്സ്പിരിമെൻറ്കൾ നടത്തുമ്പോൾ ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കും എന്നിട്ട് അതിൻറെ ഉത്തരങ്ങളും എടുക്കും ഉദാഹരണത്തിന് പത്ത് പേരുടെ ഡേറ്റ തന്നെ വലുതാണ് കാരണം ഈ പത്ത് പേരുടെ മുഴുവൻ കാര്യങ്ങളും കിട്ടാൻ വളരെ പാടാണ് അവർ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി തന്നെ ഉത്തരം പറയണം അങ്ങനെയൊക്കെ അപ്പോൾ അവർക്ക് ഈ 10 തന്നെ ബിഗ് ഡേറ്റ ആണ് ഇനി നമ്മൾ ആസ്ട്രോണമി എടുക്കുന്ന ഒരു ഫിസിസ്റ്റിന്റെ അടുത്തു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവർക്ക് ബഹിരാകാശത്ത് നിന്നുള്ള ചിത്രങ്ങൾ ടെലസ്കോപ്പിലൂടെ ഒക്കെ കിട്ടും അവരുടെ കയ്യിലുള്ള ഡേറ്റ ടെറാ ബൈറ്റ് ആയിരിക്കും ഒരു ദിവസം മാത്രം അവർക്ക് കിട്ടുന്നത് ടെറാ ബൈറ്റ് ആയിരിക്കും അവർക്ക് അപ്പോൾ ടെറാബൈറ്റ് ഡേറ്റ് അത്ര വലുത് ആയിരിക്കില്ല അപ്പോൾ പെറ്റ ബൈറ്റ് ആയിരിക്കും അവർക്ക് വലുത് അപ്പോൾ ഇവിടെ അതിര് വരുന്നില്ല അതായത് ഇതുവരെ ബിഗ് ഡേറ്റ ആണെന്നും ഇതിനു താഴെ ബിഗ് ഡേറ്റ അല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിനു അനുസരിച്ചായിരിക്കും ഇത് വരുന്നത് സാധാരണയായി ബിഗ് ഡേറ്റ ആയി കണക്കാക്കുന്നത് ഏതെങ്കിലുമൊരു ഡേറ്റ അല്ലെങ്കിൽ അൽഗോരിതത്തെ ഒരു മെഷിനെ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് വരികയാണെങ്കിൽ ആണ് ഈ ഡേറ്റ ഒരുപാട് വലുത് ആകുമ്പോൾ അതിനെ ഒരു മെഷീനിൽ സൂക്ഷിക്കാൻ പാട് ആയിരിക്കും അതിനെ പരമ്പരാഗതമായ അൽഗോരിതം വെച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അതിന് ഒരുപാട് സമയം വേണം അല്ലെങ്കിൽ ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമായിവരും പക്ഷേ ഇവയെല്ലാം ഏകദേശം ആയി വരുന്ന വിവരണമാണ് കൃത്യമായ ഒരു വിവരണം ബിഗ് ഡേറ്റക്ക് ഇല്ല അത് പ്രധാനമായും ആപ്ലിക്കേഷൻ അടിസ്ഥാനമാക്കി ആണ് വരുന്നത് ഇനി നമ്മൾക്ക് ബിഗ് ഡേറ്റയുടെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് നോക്കാം ഡേറ്റയുടെ വ്യാപ്തി കൂടുതലാണ് അതുകൊണ്ട് പരമ്പരാഗതമായ ആൽഗോരിതം വെച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിന് പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഡേറ്റയെ സൂക്ഷിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും കൈകാര്യം ചെയ്യുകയും വേണം അപ്പോൾ പുതിയ ടൂളുകൾ ആവശ്യമാണ് പരമ്പരാഗതമായ ടൂളുകൾ ആയ RDBMS സിസ്റ്റത്തിന് ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചെന്നു വരില്ല അതുപോലെതന്നെ പുതിയ കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങളുടെ ആർക്കിടെക്ചറും കാരണം ഒരു മെഷീന് ഇതിനെ സൂക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ക്ലൌഡ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സൂപ്പർകമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ സെറ്റപ്പ് ആവശ്യം ഉണ്ടാകും ഇവിടെ ബിഗ് ഡേറ്റ ആവശ്യം വരും ഇനി ഏതൊക്കെ പ്രോപ്പർട്ടികൾ ആണ് ബിഗ് ഡേറ്റയിൽ വരുന്നത് എന്ന് നോക്കാം ഇതിന് മൂന്ന് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ ഉണ്ട് ഇവയെ വി പ്രോപ്പർട്ടികൾ എന്നാണ് പറയുന്നത് ആദ്യത്തേത് വോളിയം ആണ് ബിഗ് ഡേറ്റക്ക് വളരെ വലിയ വ്യാപ്തി ഉണ്ട് ഡേറ്റയെ ഒരു മെഷീനിനകത്ത് കേറ്റണം അതായത് ലോഡ് ചെയ്യാൻ വേണ്ടിയും ഇൻഡക്സ് കൊടുക്കാൻ വേണ്ടിയും ചോദ്യം ചോദിക്കാൻ വേണ്ടിയും ഉള്ള സിസ്റ്റങ്ങൾ അത് ഒരു പ്രശ്നമാണ് അടുത്തത് വെറൈറ്റി കാരണം ബിഗ് ഡേറ്റയിൽ ഒരേതരത്തിലുള്ള ഡേറ്റ അല്ല വരുന്നത് അത് അപ്പോൾ ഒരു സ്കീമ അല്ലെങ്കിൽ ഒരു കാസ്കേഡ് ആയിട്ടല്ല ഉണ്ടാക്കുക ഒരുപാട് കാര്യങ്ങളൊരുമിച്ചാണ് ഒരു ബിഗ് ഡേറ്റ സെറ്റപ്പിൽ വരുന്നത് RDBMS പോലുള്ള രൂപഘടന അല്ലെങ്കിൽ സെമി സ്ട്രക്ചർ എന്നിവ നമ്മൾക്ക് ഡേറ്റക്ക് കൊടുക്കാം അല്ലെങ്കിൽ കീ വാല്യൂ സ്റ്റോർ അല്ലെങ്കിൽ പൂർണമായും സ്ട്രക്ചർ ആയിട്ടുള്ള ടെക്സ്റ്റ് എഴുതിയ മെമ്മറി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വച്ചാൽ ഇവിടെ ഏകദേശം സ്ട്രക്ച്ചർ ഒന്നുമില്ല ഇനി അടുത്തത് വെലോസിറ്റി അതിൻറെ അർത്ഥം എന്താണ് ബിഗ് ഡേറ്റ റിയൽ ടൈമിൽ ആയിരിക്കാം വരുന്നത് സ്ട്രീമിങ് ഡേറ്റയും ആകാം അൽഗോരിതം ആയിരിക്കും അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് കൂടുതൽ ഡേറ്റ വന്നു കൊണ്ടേയിരിക്കും അപ്പോൾ മുഴുവൻ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കില്ല അതിനെ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനെ റിയൽ ടൈമിൽ സ്ട്രീമിംഗ് രീതിയിൽ പ്രോസസ്സ് ചെയ്യണം ഡേറ്റ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇതാണ് ബിഗ് ഡേറ്റയുടെ 3 v കൾ ട്രാൻസഫർ ബിഗ് ഡേറ്റക്ക് ഒരുപാട് പ്രചാരം കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലുള്ള മറ്റ് പദങ്ങളും ഉണ്ട് അടുത്തത് വെറാസിറ്റി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ വരുന്ന ഡേറ്റയുടെ വിശ്വാസ്യത അത് ശരിയാണോ അല്ലയോ എന്നുള്ളതും ഡേറ്റ ഇപ്പോഴും വാലിഡ് ആണോ അതോ അത് എക്സ്പെയർ ആയോ എന്ന് നോക്കണം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയതിനു ശേഷം അതിനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വാലിഡ് ആയിരിക്കില്ല ഇതാണ് വാലിഡിറ്റി അടുത്തത് വിസിബിലിറ്റി എങ്ങനെ ആണ് ഒരാൾക്ക് മുഴുവൻ ഡേറ്റയേയും കാണാൻ സാധിക്കുന്നത് എന്നും അതിനെ സിസ്റ്റത്തിൻറെ എല്ലാ ഭാഗത്തും കാണാൻ പറ്റുമോ എന്നുള്ളതും നോക്കണം ഉദാഹരണത്തിന് എൻറെ ഫേസ്ബുക്കിൽ ഉള്ള പോസ്റ്റ് കാണാൻ സാധിക്കുന്നതിനെക്കുറിച്ച് നോക്കാം അതിനെ മറ്റ് മെഷീനുകൾക്ക് വേണമെങ്കിൽ പോലും ഈ വിസിബിലിറ്റി എന്നത് ഒരു വലിയ പ്രശ്നമാണ് അടുത്ത ഏഴാമത്തെത് വേരിയബിളിറ്റി ആണ് ഇനി എത്രമാത്രം വെറൈറ്റി ആണ് ഒരു സെറ്റപ്പിൽ ബിഗ് ഡേറ്റക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് അതിന് ഇനി പ്രത്യേക രൂപഘടനകൾ വെക്കേണ്ടി വരുമോ അല്ലെങ്കിൽ പ്രത്യേക നിയമങ്ങൾ വെക്കേണ്ടി വരുമോ ഇതൊക്കെയാണ് ബിഗ് ഡേറ്റയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ അതായത് വോളിയം വെറൈറ്റി വെലോസിറ്റി തുടക്കത്തിൽ ഉള്ള 3 v കൾ അതിനുശേഷം മറ്റ് vകളും ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഒരു ബിഗ് ഡേറ്റ സിസ്റ്റം വേണമെങ്കിൽ കുറച്ച് എനേബ്ലറുകൾ വേണം അത് എന്തെന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേക സ്ഥലത്ത് തന്നെ വരണം ആദ്യത്തേത് സ്റ്റോറേജ് സ്പേസ് കൂട്ടുക എന്നതാണ് ടെറാബൈറ്റ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും ഒരു ദിവസം വരുന്നത് അപ്പോൾ നമ്മൾക്ക് പെറ്റ സ്റ്റോറേജ് ആവശ്യം വരും ആയിരം ടെറാബൈറ്റ് ആണ് ഒരു പെറ്റ ബൈറ്റ് നമ്മൾക്ക് അത്തരത്തിലുള്ള സ്റ്റോറേജ് ആയിരിക്കും ആവശ്യം വരിക അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ അതുപോലത്തെ സിസ്റ്റം ആയിരിക്കണം ഉണ്ടാക്കേണ്ടത് അത് നൽകപ്പെട്ടത് ആണ് സ്റ്റോറേജ് വോളിയം കൂട്ടുകയാണ് പിന്നെ അടുത്തത് പ്രോസസിങ് പവർ കൂട്ടണം അപ്പോൾ വേഗത ഉള്ള മെഷിനുകളെ ആണ് ആവശ്യം കൂടുതൽ നല്ല CPU ആണ് വേണ്ടത് അത് മനസ്സിലാക്കാം ഡേറ്റ കൂട്ടുന്നത് ആണ് ഈ ബിഗ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡേറ്റ ഉണ്ടാക്കാൻ സാധിക്കും ഒരുപാട് പ്രാവശ്യം ഈ ഡേറ്റ നെറ്റ്വർക്കിൽ ലഭ്യമാകും അപ്പോൾ നെറ്റ്വർക്കിന്റെ വേഗത അതിൻറെ സാമർത്ഥ്യം എല്ലാം കൂട്ടണം നെറ്റ് വർക്കിൽ ആയിരിക്കും സ്ട്രീമിങ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ഒരുപാട് ഡേറ്റാബേസിലോട്ട് അയക്കേണ്ടിവരും കാരണം ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടട് സിസ്റ്റം ആണ് അതുകൊണ്ട് അത് പല സ്ഥലങ്ങളിലോട്ട് ആയിരിക്കണം ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കൂടുന്നു അതായത് കാശ് കൂടുന്നു ഇതിനെയെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് കാശ് ആവശ്യമാണ് ഈ കാര്യങ്ങളെല്ലാം വേണം ഒരു ബിഗ് ഡേറ്റ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ബിസിനസ് കൂട്ടാൻ വേണ്ടി അവസാനത്തെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ബിഗ് ഡേറ്റ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ലാഭം ഉണ്ടാകണം ബിഗ് ഡേറ്റ പ്രിൻസിപ്പിളിൽ ഉൾപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം ഇതാണ് ബിഗ് ഡേറ്റയുടെ എനേബ്ലറുകൾ അതിന് കുറച്ച് ടൂളുകൾ ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ലഭ്യമായിട്ടുള്ള ചില ടൂളുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ബിഗ് ഡേറ്റ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്ലൌഡ്കൾ ഉണ്ട് അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടട് സെർവറുകൾ അല്ലെങ്കിൽ ക്ലൌഡ് എന്നിവ ലഭ്യമാണ് ഇതാണ് പ്രശസ്തമായ ക്ലൌഡ് നിങ്ങൾ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഇത് വളരെ ഒരു ചെറിയ പദമല്ല ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടട് സർവർ ആണ് നമുക്ക് ഡേറ്റ അതിനകത്ത് വയ്ക്കാം ഉദാഹരണത്തിന് Amazon EC2 അതിന് ഒരുപാട് ഡേറ്റയെ സൂക്ഷിക്കാൻ പറ്റും പക്ഷേ നമ്മൾ കാശ് കൊടുക്കണം സൌജന്യം ആയിട്ടുള്ള ഒന്ന് അല്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് അടുത്തത് ഫയൽ സിസ്റ്റം ഇതിനെ എല്ലാം ചെയ്യാൻ വേണ്ടി പ്രത്യേക ഫയൽ സിസ്റ്റം ലഭ്യമാണ് അതിന്റെ പ്രോപ്പർട്ടികൾ എന്നത് സ്കൈലബിളും ഡിസ്ട്രിബ്യൂട്ടട്ടും ആയിരിക്കണം അത് ഡേറ്റയെ പിന്താങ്ങി ഇരിക്കണം പരമ്പരാഗതമായിട്ടുള്ള ഫയൽസിസ്റ്റം ഗുണകരമല്ല HDFS ഫയൽസിസ്റ്റം ഇതിനെ പിൻതാങ്ങും ഇത് ലഭ്യവുമാണ് പിന്നെ ആമസോൺ ഉണ്ട് അതിന് അതിൻറെതായ ഫയൽസിസ്റ്റം ഉണ്ട് അതിനെ S3 എന്നാണ് പറയുന്നത് പിന്നെ അവിടെ ഒരു പ്രോഗ്രാമിങ്ങ് മോഡൽ കൂടി ഉണ്ട് ഇപ്പോൾ പ്രോഗ്രാമിംഗ് പാരാഡിം ഇവിടെ മാറുകയാണ് കാരണം ബിഗ് ഡേറ്റയെ പരമ്പരാഗതമായ ആൽഗോരിതം വെച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗ് മോഡൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പാരാഡിം മാറുകയാണ് കൂടുതൽ സ്കൈലബിളും ഡിസ്ട്രിബ്യൂട്ടടും ആണ് അപ്പോൾ ഈ പുതിയ പ്രോഗ്രാമിങ് മൊഡ്യൂൾ സ്വന്തമായി തന്നെ ഇത് അതിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആണ് അത് സ്വാഭാവികമായി തന്നെ ഇതിനെ പിന്താങ്ങുന്നില്ല പിന്നെ ഇനി അടുത്തത് മാപ്പ് റെഡ്യൂസ്ഫ്രെയിംവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാപ്പ് റെഡ്യൂസ്ഫ്രെയിംവർക്കിന് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പിന്നെ ഹഡൂപ് എന്നത് മറ്റൊരു ടൂളാണ് അത് ഇതെല്ലാം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഇതിന് ഡേറ്റാബേസിൻറെ പിന്താങ്ങൽ ആവശ്യമാണ് ഈ ഡേറ്റാബേസിന് RDBMS കഴിഞ്ഞു പോകേണ്ടിവരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവ എല്ലാം NoSQL എന്ന പദത്തിൻറെ താഴെ ഒരുമിച്ച് വരികയാണ് പിന്നെ ഉദാഹരണങ്ങൾ ആയ എച്ച് ബേസ് മോങ്കോ ഡിബി കസ്സാൻട്ര എന്നിവ എല്ലാം ബിഗ് ഡേറ്റയുടെ എനേബ്ലറുകൾ ആണ് ഈ ടൂളുകൾ ബിഗ് ഡേറ്റയിൽ ചില വിശകലനം നടത്താൻ സഹായിക്കുന്നു ഇനി ഇത് ഓപ്പറേഷൻ ഇനി ഇവിടെ ഉള്ള കാര്യങ്ങൾ എന്താണ് അപ്പോൾ ഈ ടൂളുകളെ നമ്മൾക്ക് ക്വയറിങ്ങ് ഇൻഡെക്സിങ്ങ് അനാലിറ്റിക്സ് എന്നിവക്ക് ആവശ്യമാണ് അനാലിറ്റിക്സ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് പിന്നെ ഈ O lap എന്നത് എല്ലാം ക്വയറിംഗ് ഇൻഡെക്സിങ്ങ് പിന്നെ അനാലിറ്റിക്സ് വഴി ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡേറ്റ മൈനിങ് ഉണ്ടാകും ഡേറ്റ മൈനിങ്ങിന് പല ടൂളുകളും ഉണ്ട് ബിഗ് ഡേറ്റ കാരണം ഡേറ്റ മൈനിങ് ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് കാരണം അതിന് ഈ ഓപ്പറേഷനുകൾ എല്ലാം ചെയ്യേണ്ടിവരും അതുപോലെതന്നെയാണ് വിവരങ്ങൾ എടുക്കുന്നതും ഇതെല്ലാം സാധാരണ ആയിട്ടുള്ള പദങ്ങളാണ് പ്രത്യേകം ആയിട്ടുള്ള ടൂളുകൾ അല്ല കാരണം ഈ ഭാഗങ്ങളിൽ ഒരുപാട് ടൂളുകൾ ഉണ്ട് പക്ഷേ അവയെല്ലാം ബിഗ് ഡേറ്റയെ കൈകാര്യം ചെയ്യാൻ എന്നേബ്ലർ ആയിട്ടോ ടൂൾ ആയിട്ടോ കൈകാര്യം ചെയ്യാൻ പറ്റും അടുത്തത് മെഷിൻ ലേർണിംഗ് അതിൻറെ ഉദാഹരണം വളരെ ആകർഷകമാണ് അത് മഹൌട് ടൂളുകൾ വെച്ച് ഹഡൂപിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് പ്രത്യേകം മെഷിൻ ലേണിങ് അൽഗോരിതം നേരിട്ട് ഡേറ്റാബേസിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് ഓപ്പൺ സോഴ്സ് ടൂളുകൾ ഉണ്ട് ഒരുപാട് എണ്ണവും സൌജന്യമായി ഉപയോഗിക്കാവുന്നതാണ് ചിലത് അങ്ങനെയല്ല ക്ലൌഡിൽ ഉള്ള ഉദാഹരണങ്ങൾ ആയിട്ടുള്ള ആമസോൺ EC2 എന്നിവ ഒന്നും സൌജന്യമല്ല അല്ല അവ വിലയേറിയതാണ് അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാം സൂക്ഷിക്കേണ്ടത് ആയിട്ടുണ്ട് ഒരാൾ ബിഗ് ഡേറ്റ ഒരു ആപ്ലിക്കേഷന് ചേരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആണ് എൻറെ ആപ്ലിക്കേഷന് ഒരുപാട് വലിയ ഡേറ്റ ആണ് ഉള്ളത് അതുകൊണ്ട് ബിഗ് ഡേറ്റ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ശരിയല്ല അത് സാധാരണ പരമ്പരാഗതമായിട്ടുള്ള ആൽഗോരിതത്തിന് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബിഗ് ഡേറ്റ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഇനി അടുത്ത ഒരു പുതിയ പാരാഡിം വരുന്നുണ്ട് ഇവിടെ ഒരു പുതിയ പദം വരുന്നു ഡേറ്റ സയൻസ് ഡേറ്റ സയൻസിന്റെ കോഴ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉള്ളതാണ് ഈ ബിഗ് ഡേറ്റ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കൈകാര്യം ചെയ്യാൻ ആണ് ഇത് NoSQL പോലെ ബിഗ് ഡേറ്റ അത്രയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത് എന്തായാലും ആപ്ലിക്കേഷൻ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് അതിന് ഒരുപാട് പ്രചാരണം കൊടുക്കുന്നുണ്ട് ചില എനേബ്ലറുകളും ടൂളുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതോടെ ഈ ഒരു കോഴ്സിന്റെ മൊഡ്യൂളുകൾ തീരുകയാണ് നിങ്ങൾ ഇത് ആസ്വദിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ ഒരുപാട് അസൈൻമെൻറ് സത്യസന്ധമായും ശരിയായും ചെയ്തിട്ടുണ്ട് അതോടെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ട് ഉണ്ടാകും നിങ്ങൾ സ്ലൈസിലൂടെ ഒരുപാട് മനസ്സിലാക്കിയിട്ട് ഉണ്ടാകും അവസാനത്തെ പരീക്ഷക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത് ആയിട്ട് ഉണ്ട് അത് അത്ര എളുപ്പമായിരിക്കില്ല നിങ്ങളെല്ലാവരും അത് തരണം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു അസൈൻമെൻറും ഈ അവസാനത്തെ സർട്ടിഫിക്കേഷൻ പരീക്ഷയും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഡേറ്റാബേസ് സിസ്റ്റത്തെ കുറിച്ച് നല്ലൊരു അറിവ് ലഭിക്കും യുജി ഡേറ്റാബേസ് സിസ്റ്റത്തെ കുറിച്ച് അപ്പോൾ ഡേറ്റാബേസ് കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസവും സൌകര്യമുണ്ടാകും